അടുത്തതായി നമ്മൾ മറ്റൊരു മൂന്നോ നാലോ ഉദാഹരണങ്ങൾ കാണും അതോടൊപ്പം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ അവസാനിപ്പിക്കും അതിനാൽ a എന്ന പോയിന്റിലേക്ക് നോക്കുക 100 കെവിഎ 442220 വോൾട്ട് സിംഗിൾ ഫേസ് 50 ഹെർട്സ് കോർ ടൈപ്പ് ട്രാൻസ്ഫോർമറിന് 0 8 പവർ ഫാക്ടർ ലാഗിങ്ൽ പൂർണ്ണ ലോഡ് നൽകുമ്പോൾ 98 5 പ്രവർത്തനക്ഷമതയുണ്ട് ഐക്യ പവർ ഫാക്ടറിൽ പകുതി ലോഡ് വിതരണം ചെയ്യുമ്പോൾ വിശകലനം ചെയ്യുമ്പോൾ 99 കാര്യക്ഷമത കാണിക്കുന്നു ഇരുമ്പിന്റെ നഷ്ടവും ചെമ്പ് നഷ്ടവും പൂർണ്ണ ലോഡിൽ കണ്ടെത്തുക അതിനാൽ ഇതാണ് പ്രശ്നം അതിനാൽ ഇപ്പോൾ ഇരുമ്പ് നഷ്ടം W i പൂർണ്ണ ലോഡ് ചെമ്പ് നഷ്ടം W c പൂർണ്ണ ലോഡ് എന്നാൽ x 1 x KVA KVA പൂർണ്ണ ലോഡ് എന്നാണ് അർത്ഥമാക്കുന്നത് ഈ രീതിയിൽ ട്രാൻസ്ഫോർമർ ചില കെവിഎയും അത് പ്രവർത്തിക്കുന്ന കെവിഎയും റേറ്റുചെയ്തിട്ടുണ്ടെന്ന് കരുതുക അതിനാൽ ഈ കാര്യത്തിന്റെ അനുപാതം x നൽകിക്കൊണ്ട് ലോഡിംഗ് ഘടകം പറയുന്നു അതിനാൽ അത് KVA KVA fl ആണെങ്കിൽ x 1 അതിനാൽ അതുകൊണ്ടാണ് ഇവിടെ x 1 എന്ന് എഴുതുന്നത് അതിനാൽ ഈ സൂത്രവാക്യങ്ങളുടെ കാര്യക്ഷമത 98 5 ആണ് അതിനാൽ 0 985 ഇതാണ് 100 കെവിഎ ട്രാൻസ്ഫോർമർ അതിനാൽ 100 അതായത് 1000 0 8 പവർ ഫാക്ടറും x 1 ഉം ആണ് അതിനാൽ ഇത് ഇവിടെ കാണിച്ചിട്ടില്ല എന്നാൽ 1 കൊണ്ട് ഗുണിച്ചാൽ അവയെ ഒരേ മൂല്യത്താൽ വിഭജിച്ചിരിക്കുന്നു ഇരുമ്പ് നഷ്ടം ചെമ്പ് നഷ്ടം Wi W c അതിനാൽ ലളിതമാക്കിയതിനുശേഷം ഇത് ലളിതമാക്കുകയാണെങ്കിൽ അത് 0 85 W i 0 985 W c 1200 ആയിരിക്കണം ഇത് സമവാക്യം 1 ആണ് ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെട്ട പകുതി ലോഡിന്റെ ഫലം ഐക്യ പവർ ഫാക്ടർ പകുതി ലോഡ് എന്നതിനർത്ഥം കെവിഎയെ ഐക്യ പവർ ഫാക്ടറിന്റെ 2 കൊണ്ട് അർത്ഥമാക്കുന്നു ഇത് 100 കെവിഎ ട്രാൻസ്ഫർ പകുതി ലോഡ് പകുതി 100 1000 1 അതിനാൽ 50 10 മുതൽ പവർ 3 വാട്ട് അതിനാൽ അക്കാലത്ത് കാര്യക്ഷമത 99 ആയിരുന്നു അതിനാൽ 0 99 പവർ 3 ലേക്ക് 50 10 എന്നതിനെ പവർ 3 ലേക്ക് 50 10 ഡബ്ല്യു ഐ കോപ്പർ ലോസ് എന്നിവ പകുതി 2 ആയി വിഭജിക്കുന്നു കാരണം ചെമ്പ് നഷ്ടം x 2 W c ഉം x ഉം ഒരു പകുതി ലോഡാണെന്നും അതിനാൽ x പകുതി പകുതി 2 W c എന്നും അറിയുക 99 W i 0 2475 W c 500 അതായത് 2 സമവാക്യം 2 അതിനാൽ 1 2 എന്നീ സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിന് W i 267 3 വാട്ടും W c 950 9 വാട്ടും നേടുക അതിനാൽ ഇതാണ് ഇരുമ്പിന്റെ നഷ്ടം ഇത് ചെമ്പ് നഷ്ടമാണ് ഇത് ഉത്തരം ഇവിടെ അടുത്തത് അത് പരിഹരിക്കുന്നതിനാണ് ഞാൻ ഡബിൾ ഡാഷ് ആക്കുന്നു ഇത് ഉദാഹരണമല്ല പരിശീലന പ്രശ്നം ആണ് പവർ ഫാക്ടർ 0 8 ലാഗിങ് 0 8 ലീഡിംഗും ആയിരിക്കുമ്പോൾ ഫലം 2 ചെമ്പ് നഷ്ടവും 5 പ്രതിപ്രവർത്തന ഡ്രോപ്പും ഉള്ള ഒരു ട്രാൻസ്ഫോർമറിന്റെ വോൾട്ടേജ് നിയന്ത്രണം കണക്കാക്കേണ്ടതുണ്ട് ആ നിയന്ത്രണ സൂത്രവാക്യം ഉപയോഗിച്ച് അതിനനുസരിച്ച് ഈ ഉത്തരം നൽകിയിട്ടില്ല പക്ഷേ അത് പരിഹരിക്കുക ഇപ്പോൾ അടുത്തത് ഇതാണ് ഉദാഹരണം 13 ഇവിടെ സിംഗിൾ ഫേസ് സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോർമറിന് അതിന്റെ അനുപാതം 3 ആണ് അതായത് k 3 പ്രാഥമിക വിൻഡിംഗിന്റെ പ്രതിരോധവും പ്രതിപ്രവർത്തനവും 1 2 Ω ഉം 6 Ω ഉം ആണ് ഇവ യഥാക്രമം 0 03 at എന്നിങ്ങനെയുള്ള ദ്വിതീയ വിൻഡിംഗ് ആണ് ഉയർന്ന വോൾട്ടേജ് വിൻഡിംഗ് 230 വോൾട്ടിലാണ് വിതരണം ചെയ്യുന്നതെങ്കിൽ കുറഞ്ഞ വോൾട്ടേജ് വിൻഡിംഗ് ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് കുറഞ്ഞ വോൾട്ടേജിൽ വിൻഡിംഗ് ലെ വൈദ്യുതി ട്രാൻസ്ഫോർമറിലെ ചെമ്പ് നഷ്ടം പവർ ഫാക്ടർ എന്നിവ കണ്ടെത്തുക കുറഞ്ഞ വോൾട്ടേജുള്ള വിൻഡിംഗ് ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് 230 വോൾട്ടിലാണ് ഉയർന്ന വോൾട്ടേജ് വിൻഡിംഗ് നൽകുന്നത് കുറഞ്ഞ വോൾട്ടേജിലെ വൈദ്യുതി ട്രാൻസ്ഫോർമറിലെ ചെമ്പ് നഷ്ടം പവർ ഫാക്ടർ എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് ഇതിനോടകം തന്നെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റും ഷോർട്ട് സർക്യൂട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിനാൽ ഈ സാഹചര്യത്തിൽ ട്രാൻസ് അനുപാതം k 3 ഉയർന്ന വോൾട്ടേജ് വശം പ്രാഥമിക ലോ വോൾട്ടേജ് വശമാണ് ദ്വിതീയമെന്ന് നിർവചിക്കുന്നത് ഇവിടെ കഴ്സർ നോക്കുക അതിനാൽ R 1 1 2 Ω x 1 6 ആണ് R 2 0 05 Ω X2 ഇത് ശരിയാക്കി X2 ഇവിടെ ഇത് 0 03 is ആണ് അതിനാൽ ഇവിടെ ഇത് 0 ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഉയർന്ന വോൾട്ടേജ് വശത്തേക്ക് തിരഞ്ഞെടുക്കുന്നു Re 1 R 1 K 2 R 2 ഇത് ഉയർന്ന വോൾട്ടേജ് വശത്തേക്ക് പരാമർശിക്കുന്നു അതിനാൽ R 1 1 0 അതിനാൽ 3 2 0 65 Ω ഉം 6 3 ഉള്ള ഈ Xe 1 x 1 K2 2 X2 ഉം ആണ് ഇത് യഥാർത്ഥത്തിൽ 0 03 ആണ് അതിനാൽ എല്ലാ തിരുത്തലുകളും വരുത്തി അതിനാൽ 6 അതിനാൽ ഇംപെഡൻസ് Re1 2 Xe 1 2 ഇതിന്റെ വർഗ്ഗമൂലം ആണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 6 48 Ω ആയി മാറുന്നു അതായത് ഷോർട്ട് സർക്യൂട്ട് കറന്റ് ISC VSC Ze 1 ഇതിന് 230 വോൾട്ട് 6 48 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 35 ഇപ്പോൾ I0 നെ അവഗണിക്കുന്നു അതിനാൽ I 0 നെ അവഗണിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോർമറിൽ നിന്ന് I 1 I2 അതേ വൈദ്യുതി 35 ഇപ്പോൾ കുറഞ്ഞ വോൾട്ടേജിലെ വൈദ്യുതധാര I2 K I2 I2 ഉപയോഗിച്ചുള്ള പരിവർത്തന അനുപാതമാണ് അതിനാൽ K 3 ആണ് അതിനാൽ ഇത് 106 4 ആമ്പിയറായി മാറുന്നു അതിനാൽ ആകെ ചെമ്പ് നഷ്ടം WSC I 1 2 Re1 ആണെങ്കിൽ അതിനാൽ ഇത് 35 47 2 1 65 ആണ് അതിനാൽ ഇത് 2076 വാട്ട് വരുന്നു VSC ISC cos ∅ sc WSC എന്ന മറ്റൊരു കാര്യം ഇവിടെയുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് Vi cos ∅ W ഒരേ ബന്ധം അതിനാൽ V 230 വോൾട്ട് വൈദ്യുതി 35 cos 2076 കണ്ടെത്തണം അതിനാൽ ഇത് യഥാർത്ഥത്തിൽ 0 254 പവർ ഫാക്ടറാണ് ഇത് വളരെ ലളിതമായ കാര്യമാണ് കുറഞ്ഞ വോൾട്ടേജിലെ വൈദ്യുതി നോക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ 106 4 ആമ്പിയർ വളരെ ഉയർന്നതാണ് എന്നതാണ് കാര്യം അതിനാൽ ട്രാൻസ്ഫോർമറിന്റെ ഒരൊറ്റ ഘട്ട ഘട്ടമായ 'പ്രശ്നം' പരിശോധിക്കുകയാണെങ്കിൽ ഇതാണ് പ്രാഥമിക വിൻഡിംഗിന്റെ പ്രതിരോധവും പ്രതിപ്രവർത്തനവും ഇതെല്ലാം നൽകിയിരിക്കുന്നു ഉയർന്ന വോൾട്ടേജ് വിൻഡിംഗ് 230 വോൾട്ടിലാണ് നൽകിയിട്ടുള്ളതെങ്കിൽ കുറഞ്ഞ വോൾട്ടേജ് വിൻഡിംഗ് ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ കുറഞ്ഞ വോൾട്ടേജ് വിൻഡിംഗിലെ വൈദ്യുതി കണ്ടെത്തുക അതിനാൽ കുറഞ്ഞ വോൾട്ടേജ് വിൻഡിംഗിലെ വൈദ്യുതിയിൽ അത് നോക്കുക ഞാൻ ഈ പ്രശ്നം മനപൂർവ്വം എടുത്തു ഇത് 106 ആമ്പിയർ വരുന്നു അതിനാൽ വൈദ്യുതധാരയുടെ ഈ മൂല്യം അളക്കാൻ പരീക്ഷണശാലയിൽ ആ അമീറ്റർ ഉണ്ടായിരിക്കില്ല അതിനാൽ മനപൂർവ്വം അത് എടുത്തു എന്തായാലും അതിനാൽ അടുത്തത് ഒരു സിംഗിൾ ഫേസ് 3 KVA ട്രാൻസ്ഫോർമർ ആണ് 230115 വോൾട്ട് 50 ഹെർട്സ് ട്രാൻസ്ഫോർമറിന് ഇനിപ്പറയുന്ന സ്ഥിരതകളുണ്ട് R 1 നൽകിയിട്ടുണ്ട് X നൽകിയിട്ടുണ്ട് R 2 X 2 ഉം നൽകിയിട്ടുണ്ട് കൂടാതെ RC കൽക്കരി നഷ്ട ഘടക ഘടക പ്രതിരോധം നൽകിയിരിക്കുന്നു കൂടാതെ കാന്തിക ഘടകം പ്രതിപ്രവർത്തനം നൽകിയിരിക്കുന്നു എല്ലാം നൽകിയിരിക്കുന്നു ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിനും തുടർന്ന് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുകൾക്കുമായി ട്രാൻസ്ഫോർമർ ബന്ധിപ്പിക്കുമ്പോൾ ഉപകരണത്തിന്റെ വ്യാഖ്യാനം എന്തായിരിക്കും രണ്ട് പരീക്ഷണങ്ങളിലും ഉയർന്ന വോൾട്ടേജ് ഭാഗത്തേക്ക് വിതരണം നൽകുന്നു ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് V1 230 volt K ട്രാൻസ് അനുപാതം 230 അല്ലെങ്കിൽ വോൾട്ടേജ് അനുപാതം 2150 2 അതിനാൽ സിംഗിൾ ഫേസ് സർക്യൂട്ട് പോലെയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതായി നേരിട്ട് എഴുതാൻ കഴിയും അതിനാൽ I c V1 R c അതിനാൽ 0 383 ആമ്പിയർ സർക്യൂട്ട് സമീപമല്ല കാരണം അത് മനസ്സിലാക്കാവുന്നതും ആണ് Im 1 X m 15 ആമ്പിയർ അതിനാൽ I 0 IC 2 I m 2 ന്റെ വർഗ്ഗമൂലം ആണ് അതിനാൽ ഇത് 1 212 ആമ്പിയർ വരുന്നു ഇപ്പോൾ ലോഡ് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉയർന്ന വോൾട്ടേജിലേക്ക് ഉള്ള ഇൻപുട്ട് V 1 I c ലോഡ് ഇല്ലാത്ത അവസ്ഥയിൽ ഇൻപുട്ട് അതാണ് അതിനാൽ ഇത് 230 0 അതിനാൽ ഇത് അടിസ്ഥാനപരമായി 88 09 വാട്ട് ഏകദേശം 88 വാട്ട് ആണ് ഇപ്പോൾ ഉപകരണത്തിന്റെ വ്യാഖ്യാനം വോൾട്ട്മീറ്റർ റീഡിംഗ് 230 വോൾട്ട് അമ്മീറ്റർ റീഡിംഗ് 2 ആമ്പിയർ വാട്ട്മീറ്റർ മീറ്റർ റീഡിംഗ് 88 വാട്ട് ആയിരിക്കും ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് പരിശോധന ഇവിടെ K 2 അതിനാൽ Re1 R 1 K 2 R 2 എല്ലാം കണക്കുകൂട്ടുക 66 Ω ലഭിക്കും ഇവിടെ ഇത് Xe 1 X 1 k 2 X2 ആണ് അതിലേക്ക് വരിക തുടർന്ന് 0 8 ലഭിക്കും ഇപ്പോൾ Z e1 കണക്കുകൂട്ടുക ഉയർന്ന ഉയർന്ന വോൾട്ടേജ് വിൻഡിംഗിൽ പൂർണ്ണ ലോഡ് കറൻറ് ഈ 3 KVA ട്രാൻസ്ഫോർമർ അതിനാൽ ഞാൻ 1 3 x 1000 mm 230 13 ഇപ്പോൾ VSC ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ വോൾട്ടേജ് I 1 Z e1 ന് ഇത് 13 ആയി ലഭിക്കും കാരണം ഉയർന്ന വോൾട്ട് കാരണം ഷോർട്ട് സർക്യൂട്ട് പരിശോധനയ്ക്ക് വളരെ കുറഞ്ഞ വോൾട്ടേജ് ആവശ്യമാണ് അതിനാൽ VSC 13 5 വോൾട്ട് ഷോർട്ട് സർക്യൂട്ട് അവസ്ഥയിൽ WSC ചെമ്പ് നഷ്ടം I1 2 Re 1 ഇത് 112 വാട്ട് വരുന്നു അതിനാൽ ഇൻസ്ട്രുമെന്റലിന്റെ അളവു രേഖപ്പെടുത്തൽ വോൾട്ട്മീറ്റർ റീഡിംഗ് 13 5 വോൾട്ടും അമ്മീറ്റർ റീഡിംഗ് 13 ആമ്പിയറും വാട്ട് മീറ്റർ റീഡിംഗ് 112 വാട്ടും ആയിരിക്കും അതിനാൽ ട്രാൻസ്ഫോർമറിനായി ഞാൻ പരിഗണിക്കുന്ന അവസാന പ്രശ്നമാണിത് ഇത് ഒരു ഓട്ടോ ട്രാൻസ്ഫോർമർ ആണ് ഇവ വളരെ ലളിതമായ കാര്യമാണ് 2 വൈൻഡിങ് ട്രാൻസ്ഫോർമറായി ഉപയോഗിക്കുമ്പോൾ 2 3 KVA സിംഗിൾ ഫേസ് ഓട്ടോ ട്രാൻസ്ഫോർമറിൽ 11 5 KVAയ്ക്ക് 100 KVAയുടെ തോതു നിശ്ഛയിച്ച ഫലം ഉണ്ട് ഇപ്പോൾ ട്രാൻസ്ഫോർമറിന്റെ 2 വൈൻഡിങ് അനുക്രമത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ ഓട്ടോ ട്രാൻസ്ഫോർമറായി രൂപം കൊള്ളുന്നു സാധ്യമായ വോൾട്ടേജ് അനുപാതവും കണ്ടെത്തുക ഇതാണ് പ്രശ്നം ഇത് എങ്ങനെ ചെയ്യും സാധ്യമായ രണ്ട് കണക്ഷനുകൾ സാധ്യമാകുന്നത് എങ്ങനെ ചെയ്യും ഇവിടെ ഇതാ ഓട്ടോ ട്രാൻസ്ഫോർമർ ഇത് A ആണ് ഈ ഭാഗം B ഈ ഭാഗം C ഈ വൈദ്യുതി I1 ന് മുമ്പുള്ളതുപോലെ മുകളിലേക്കുള്ള ദിശ I2 I1 ആണ് കൂടാതെ ലോഡിലേക്ക് പോകുന്ന വൈദ്യുതി ആണ് I2 എന്ന് പറയുന്നത് BC ഭാഗം അതിനാൽ ഇത് 11500 വോൾട്ട് ആണെങ്കിൽ ഇത് X 2 ആണെന്ന് പറയുക ഇതാണ് BC ഭാഗം ഇവിടെ കഴ്സർ ചിഹ്നം നോക്കുക BC B അങ്ങനെയാണെങ്കിൽ അത് 2300 വോൾട്ട് X 2 ഉം AC മുതൽ A വരെ C 11500 വോൾട്ടും ആണ് അതിനാൽ BC 11500 വോൾട്ടും AC 2300 വോൾട്ടും ആയി എടുക്കുന്നു ഇപ്പോൾ മറ്റൊരു കേസ് BC 11500 വോൾട്ട് ആണ് ഈ സാഹചര്യത്തിൽ ഇത് X 2 ആണ് ഇത് സാധ്യമായ ഒരു സംയുക്താവസ്ഥ മറ്റൊരാൾക്ക് എസി 2300 വോൾട്ട് എടുക്കാം മറ്റൊന്ന് ബിസി ബിസി 2300 വോൾട്ട് 11500 വോൾട്ട് ഉള്ള എസി ഇവയിൽ 2 സാധ്യമായ കണക്ഷൻ മാത്രമേ സാധ്യമാകൂ അതിനാൽ ആദ്യത്തെ കേസിൽ X 2 11500 അതായത് ആദ്യത്തെ കേസ് BC 11500 X 2 AC 2300 വോൾട്ട് എന്നിവയുമായി ബന്ധമുണ്ടെന്ന് കരുതുക അതിനാൽ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ 11500 വോൾട്ട് അതിനാൽ V 1 ഇത് ചേർക്കുക അതായത് A മുതൽ B വരെ ഈ സാഹചര്യത്തിൽ ഇത് 11500 2300 13800 വോൾട്ട് ആയിരിക്കും ഇപ്പോൾ വോൾട്ടേജ് അനുപാതം കെ 1380011500 138115 ആയിരിക്കും ട്രാൻസ്ഫോർമറിന് 100 KVA യാണ് മൂല്യം അതിനാൽ I2 I 1 X2 100 1000 കാരണം KVA ഇത് വോൾട്ട് ആമ്പിയറിലേക്ക് പരിവർത്തനം ചെയ്യുന്നു അതിനാൽ I2 I 1 ന് 8 7 ആമ്പിയർ ലഭിക്കും വീണ്ടും V1 V2 I 1 വീണ്ടും 100 1000 അതിനാൽ അതിൽ നിന്ന് നമുക്ക് I1 43 5 ആമ്പിയർ ലഭിക്കും ഓട്ടോ ട്രാൻസ്ഫോർമറിനായുള്ള സിദ്ധാന്തം കാണുക അതിനാൽ ഈ സമവാക്യത്തിൽ നിന്ന് I2 8 7 ലഭിക്കും 8 I1 ന് 43 5 ലഭിച്ചു അതിനാൽ I2 8 7 ആമ്പിയർ ഓട്ടോ ട്രാൻസ്ഫോർമറിന്റെ KVA മൂല്യം V1 I1 ആയി നൽകിയിരിക്കുന്നു പകരമായി ഈ മൂല്യത്തിന് 600 KVA ലഭിക്കും അതിനാൽ ഇത് 13800 43 5 ഇത് 13800 ഇത് 43 7 1000 ചെയ്താൽ 600 KVA അല്ലെങ്കിൽ X2 ഐ ലഭിക്കും ഇവിടെയും 600 KVA ലഭിക്കും ഇപ്പോൾ അതുപോലെ തന്നെ ഓട്ടോ ട്രാൻസ്ഫോർമറിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് 2 വൈൻഡിങ് ട്രാൻസ്ഫോർമറിന്റെ ന്റെ 1 1 K' പക്ഷേ K' V 1 X 2 അതായത് 138 115 അതിനാൽ ഓട്ടോ ട്രാൻസ്ഫോർമറിന്റെ വ്യാപ്തി 1 115138 2 വിൻഡിംഗ് ട്രാൻസ്ഫോർമറിന്റെ വ്യാപ്തി അതിനാൽ 2 വിൻഡിംഗ് ട്രാൻസ്ഫോർമറിന്റെ വ്യാപ്തി 0 17 ആയിരിക്കുമ്പോൾ ഓട്ടോയുടെ വ്യാപ്തി അവിടെ അതിനുള്ള ഉത്തരമുണ്ട് ഇതോടെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർ സമാപിച്ചു കാര്യങ്ങൾ വളരെ ലളിതമാണ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് തുടർന്ന് ഓട്ടോ ട്രാൻസ്ഫോർമർ 2 വൈൻഡിങ് ട്രാൻസ്ഫോർമർ ഓട്ടോട്രാൻസ്ഫോർമർ എന്നിവയുടെ മൂല്യത്തിന്റെ ഘടന തുല്യമായ സർക്യൂട്ടും പരിവർത്തനവും കാര്യക്ഷമതയും അതുപോലെ തന്നെ ഐക്യ പവർ ഫാക്ടർ ലാഗിംഗ് പവർ ഫാക്ടർ ലീഡിംഗ് പവർ ഫാക്ടർ എന്നിവയുടെ ദിവസം മുഴുവൻ കാര്യക്ഷമതയും വോൾട്ടേജ് നിയന്ത്രണവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് അതിനാൽ ട്രാൻസ്ഫോർമർ വളരെ ലളിതമാണ് അതിനാൽ അടുത്തതായി 3 ഫേസ് ഇൻഡക്ഷൻ മെഷീനായി ആരംഭിക്കാം ഒന്നാം വർഷ തലത്തിൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനാൽ ഇത് ഒരു അടിസ്ഥാന ഭാഗം മാത്രമാണ് അതിനാൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നമുക്ക് ആരംഭിക്കാം പ്രത്യേകിച്ചും അടിസ്ഥാന തലത്തിൽ കുറച്ച് മാത്രമേ പഠിപ്പിക്കൂ അതിനാൽ ഇതാണ് കാര്യം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോർമർലേക് നമുക്ക് കടക്കാം ആ ഇൻഡക്ഷൻ മെഷീന്റെ അടിസ്ഥാന തത്വം ഒരു പ്രശ്നവും സൃഷ്ടിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ഒന്നാം വർഷ തലത്തിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി മാത്രം അറിഞ്ഞിരുന്നാൽ മതി അതിനാൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകളാണ് വ്യവസായത്തിൽ ഏറ്റവുമധികം ആവൃത്തി നേരിടുന്ന മോട്ടോർ അവ ലളിതവും കുറഞ്ഞ ചെലവും പരിപാലിക്കാൻ എളുപ്പവുമാണ് എല്ലാ വ്യവസായങ്ങളിലും കണ്ടെത്തുന്ന കാര്യം അതാണ് ഇൻഡക്ഷൻ മോട്ടോറുകൾ induction motors അവിടെ ഉണ്ടെന്ന് കണ്ടെത്തും കാരണം ഇത് കൂടാതെ വ്യാവസായിക മോട്ടോറുകളിൽ ചലനമൊന്നുമില്ല അതിനാൽ 0 മുതൽ പൂർണ്ണ ലോഡ് വരെ സ്ഥിരമായ വേഗതയുണ്ട് ചിലപ്പോൾ സ്ഥിരമായ വേഗത എന്നാൽ സമന്വയ വേഗത എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ചിലപ്പോൾ അതിന് സ്ഥിരമായ വേഗതയുണ്ട് അതിനാൽ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന് 2 പ്രധാന ഭാഗങ്ങളുണ്ട് 1 സ്റ്റേഷനറീസ് ഭാഗമാണ് സ്റ്റേറ്റർ മറ്റൊന്ന് കറങ്ങുന്ന ഭാഗം അതിനെ റോട്ടർ എന്ന് വിളിക്കുന്നു അതിനാൽ മോട്ടറിന്റെ ശക്തിയെ ആശ്രയിച്ച് 0 4 mm മുതൽ 4 mm വരെയുള്ള ഒരു ചെറിയ വായു വാതകം ഉപയോഗിച്ച് റോട്ടർ യഥാർത്ഥത്തിൽ സ്റ്റേറ്ററിൽ നിന്ന് വേർതിരിക്കുന്നു അതിനാൽ സ്റ്റേറ്ററും റോട്ടറും തമ്മിൽ ഒരു വായു കടക്കാനുള്ള വിടവ് ഉണ്ട് പിന്നീട് വൈദ്യുതി സ്റ്റേറ്ററിൽ നിന്നോ റോട്ടറിലേക്കോ വായു വിടവിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിനാൽ ഇപ്പോൾ സ്റ്റേറ്ററിൽ യഥാർത്ഥത്തിൽ സ്റ്റാക്ക് ലാമിനേഷൻ ഉപയോഗിച്ച് പൊള്ളയായ സിലിണ്ടർ കോഡ് ഉൾക്കൊള്ളുന്ന ഒരു ഉരുക്ക് ചട്ടക്കൂട് അടങ്ങിയിരിക്കുന്നു ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഈ ഫോട്ടോയാണെന്നും ഇത് ഒരു ഫോട്ടോകോപ്പി വളരെ കറുത്തതായി കാണപ്പെടുന്നുവെന്നും ഞാൻ അർത്ഥമാക്കുന്നു കാരണം ഈ ഫോട്ടോകോപ്പിയിൽ ഇവ പുറത്തെടുത്ത ടെർമിനലുകളാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ സ്റ്റീൽ ഭാഗമാണ് അതിനുള്ളിൽ ലാമിനേറ്റ് ചെയ്തതാണ് ഇവയ്ക്കുള്ളിൽ പോകുമ്പോൾ 3 ഫേസ് വിൻഡിംഗുകൾ ഉള്ള സ്ലോട്ടുകൾ സ്ഥാനങ്ങൾ പരീക്ഷണശാലയിൽ സ്റ്റേറ്റർ എങ്ങനെയാണെന്നോ റോട്ടർ എങ്ങനെയാണെന്നോ കാണാൻ ഞാൻ പറഞ്ഞു അതുപോലെ പവർ പ്ലാന്റിനായി സിൻക്രണസ് ജനറേറ്റർ ഉപയോഗിക്കുക ഈ സിൻക്രണസ് ജനറേറ്ററിന്റെ രൂപകൽപ്പന കാണണമെങ്കിൽ അറ്റകുറ്റപ്പണി നടക്കുമ്പോൾ അല്ലെങ്കിൽ വളരെ മനോഹരമായി കാണപ്പെടുമ്പോൾ അത് പവർ പ്ലാന്റിലെ ആദ്യത്തെ സിൻക്രണസ് ജനറേറ്ററാണ് എന്തായാലും ഇത് ഇൻഡക്ഷൻ മോട്ടറിന് ചെറിയ വലുപ്പമുണ്ട് സിൻക്രണസ് ജനറേറ്ററിന് വളരെ നീളമുള്ള റോട്ടർ ഉണ്ടായിരിക്കാം ഏതുവിധേനയും ഈ winding സ്ഥലം പരീക്ഷണശാലയിൽ കാണാൻ ഞാൻ നിർദ്ദേശിക്കുന്ന സ്ലോട്ടുകൾ ഇവയാണ് യന്ത്രം തുറക്കുമ്പോൾ ആ സ്റ്റേറ്റർ തീർച്ചയായും ഈ നിർമ്മാണത്തിന്റെ സാക്ഷാത്കാരത്തിനായി ചില യന്ത്രങ്ങൾ തുറന്നിരിക്കും അതിനാൽ സ്റ്റേറ്റർ ഒരു ഉരുക്ക് ചട്ടക്കൂട് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഞാൻ ഇതിനകം പറഞ്ഞു ഇത് അടുക്കിയിരിക്കുന്ന ലാമിനേഷനുകൾ കൊണ്ട് നിർമ്മിച്ച പൊള്ളയായ സിലിണ്ടർ കോഡ് ഉൾക്കൊള്ളുന്നു ഇവിടെ ഇതാ ഇത് ഉരുക്ക്ഭാഗമാണ് അതിനാൽ ലാമിനേഷന്റെ ആന്തരിക ചുറ്റളവിൽ നിന്ന് തുല്യ അകലത്തിലുള്ള നിരവധി ചീട്ടുകൾ സ്റ്റേറ്റർ വിൻഡിംഗിന് ഇടം നൽകുന്നു അതിനാൽ സ്റ്റേറ്റർ വിൻഡിംഗ്സ് ഇവിടെയുണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പരീക്ഷണശാലയിൽ ഇത് കാണുക ഇത് ഉള്ളത് 3 ഫേസ് സ്റ്റേറ്ററാണെന്ന് പറയുന്നതിനുമുമ്പ് ട്രാൻസ്ഫോർമറിൽ ഫ്ലക്സ് സമയം വ്യത്യാസപ്പെട്ടിരുന്നു കറങ്ങുന്ന ഉപകരണമായി നിശ്ചല ഉപകരണത്തെ മാറ്റുകയാണ് വ്യത്യാസം എന്നാൽ ട്രാൻസ്ഫോർമറിന്റെ കാര്യത്തിൽ ഫ്ലക്സ് സമയം വ്യത്യാസപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ സ്റ്റേറ്റർ 3 ഘട്ടത്തിൽ വൈദ്യുതി വിതരണം ചെയ്യുകയാണെങ്കിൽ 3 ഘട്ട ഉപരിതലത്തെക്കുറിച്ച് പഠിച്ചു അതിനാൽ 3 ഫേസ് വിൻഡിംഗുകൾ ഉണ്ട് അതിനാൽ ഇത് 3 ഘട്ടം കറങ്ങുന്ന കാന്തികക്ഷേത്രം സൃഷ്ടിക്കും എന്നാൽ ഇവിടെ റോട്ടർ ഇല്ല റോട്ടർ പ്രത്യേകം കാണിക്കും അതിനാൽ 3 ഫേസ് മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിച്ചയുടനെ ട്രാൻസ്ഫോർമർ പോലെ ചോർച്ച പ്രതിരോധത്തെയും പ്രതിപ്രവർത്തനത്തെയും അവഗണിക്കുകയാണെങ്കിൽ ഓരോ സ്ഥലത്തും സ്റ്റേറ്റർ winding വോൾട്ടേജും ഉണ്ടാകുന്നു അതിനാൽ ഇത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിന്റെ സ്റ്റാർട്ടറാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ റോട്ടർ തുളയിട്ട ലാമിനേഷനും ചേർന്നതാണ് ഇവ റോട്ടർ വിൻഡിംഗിന് ഇടം നൽകുന്നതിനായി റോട്ടർ സ്ലോട്ടുകളുടെ ഒരു ശ്രേണി സൃഷ്ടിക്കുന്നതിന് ശ്രദ്ധാപൂർവ്വം കുടുങ്ങിയിരിക്കുന്നു അതിനാൽ ഇവിടെയും ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ഫോട്ടോകോപ്പി കാരണം ഈ ചിത്രം കറുത്തതായി തോന്നുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ സ്ക്വിറൽ കേജ് യന്ത്രംആണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ ബാർ തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ അത് squirrel cage റോട്ടറാണ് സ്ലോട്ടുകൾ അവിടെയുണ്ട് ബാറുകൾ യഥാർത്ഥത്തിൽ അതിൽ സ്ഥാപിച്ചിരിക്കുന്നു ഈ റോട്ടറിന്റെ ഓരോ അറ്റത്തിനും രണ്ടും അവസാനം ചെമ്പ് ഉപയോഗിച്ച് വിളക്കിച്ചേർക്കുന്നു കാരണം ഇത് ചെമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഇരുവശവും ഒരുമിച്ച് തുളക്കുകയും വിളക്കി ചേർക്കുകയും ചെയ്യുന്നു ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് പിന്നീട് കാണുന്നത്സ്ക്വിറൽ കേജ് റോട്ടർ ഓപ്പൺ ഇൻഡക്ഷൻ മെഷീൻ കാണാൻ പരീക്ഷണശാലയിൽ ഞാൻ നിർദ്ദേശിക്കുന്നു തീർച്ചയായും അത് അവിടെ ഉണ്ടാകും അവിടെ മികച്ച ദൃശ്യവൽക്കരണം ലഭിക്കും അതിനാൽ 2 തരം റോട്ടർ വിൻഡിംഗ് ഉപയോഗിക്കുക ഒന്ന് ഇൻസുലേറ്റഡ് വയർ ഉപയോഗിച്ച് നിർമ്മിച്ച പരമ്പരാഗത 3 ഫേസ് വിൻഡിംഗ് വൂണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടോറിൽ സർക്യൂട്ട് ഡയഗ്രം പിന്നീട് കാണിക്കാം മറ്റൊന്ന് സ്ക്വിറൽ കേജ് വിൻഡിംഗ് അത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ആണ് ആത്യന്തികമായി രണ്ട് കാര്യങ്ങളുടെയും ഓപ്പറേറ്റിംഗ് തത്വം ഒന്നുതന്നെയാണ് അന്തിമ ഓപ്പറേറ്റിംഗ് തത്ത്വം ഒന്നുതന്നെയാണ് പക്ഷേ വൂണ്ട് റോട്ടർ കേസ് കാണും പിന്നീട് ഞാൻ സർക്യൂട്ട് ഡയഗ്രം കാണിക്കും അത് പ്രതിരോധത്തെ ബന്ധിപ്പിക്കാനും സാവധാനത്തിൽ പ്രതിരോധം കുറയ്ക്കാനും ഇവയെല്ലാം ഷോർട്ട് സർക്യൂട്ട് ആകുകയും ചെയ്യും അതിനാൽ ഇൻഡക്ഷൻ മെഷീൻ റോട്ടറിനുള്ള റോട്ടർ യഥാർത്ഥത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് ഇതൊരു സ്വയം ആരംഭമാണ് അതിനാൽ ഒരു സ്ക്വിറൽ കേജ് റോട്ടർ നഗ്നമായ ചെമ്പ് ബാറുകൾ ചേർന്നതാണ് സ്ലോട്ടിലേക്ക് തള്ളിവിടുന്ന റോട്ടറിനേക്കാൾ അല്പം വലുപ്പമുള്ള ബാർ രേഖാചിത്രത്തിൽ കാണിക്കുന്നു ഈ കാര്യം ഓപ്പൺ മെഷീനാണെന്ന് ഞാൻ നിർദ്ദേശിക്കുന്നു തുടർന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം വിപരീത അറ്റങ്ങൾ രണ്ട് കോപ്പർ എൻഡ് വളയങ്ങളിലേക്ക് വിളക്കിച്ചേർക്കുന്നു അങ്ങനെ എല്ലാ ബാറുകളും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടാണ് മുഴുവൻ നിർമ്മാണ ബാറുകളും അവസാന വളയങ്ങളും സ്ക്വിറൽ കൂട്ടിനോട് സാമ്യമുള്ളതാണ് അതിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത് പിന്നീട് നമുക്ക് ഇത് കാണാൻ കഴിയും ചെറുതും ഇടത്തരവുമായ മോട്ടോറുകളിൽ ബാറുകളും അവസാന വളയങ്ങളും ഡൈ കാസ്റ്റ് അലുമിനിയം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇപ്പോൾ വൂണ്ട് റോട്ടർ കേസ് രേഖാചിത്രം പിന്നീട് കാണുക സ്റ്റേറ്ററിലെ സമാനമായ 3 ഫേസ് winding ഉണ്ട് വിൻഡിംഗ് സ്ലോട്ടുകളിൽ ഏകതാനമായി വിതരണം ചെയ്യുന്നു സാധാരണയായി ഇത് തുടക്കത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ടെർമിനലുകൾ 3 സ്ലീപ്പിംഗുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അത് റോട്ടറിനൊപ്പം തിരിയുന്നു ഞാൻ ആ സർക്യൂട്ട് രേഖാചിത്രം പിന്നീട് കാണിക്കും അതിനാൽ റിവോൾവിംഗ് സ്ലിപ്പ് റിംഗുകളും അനുബന്ധ സ്റ്റേഷണറി ബ്രഷുകളും പരമ്പരയിലെ ബാഹ്യ പ്രതിരോധത്തെ റോട്ടർ വിൻഡിംഗുമായി ബന്ധിപ്പിക്കാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്നു അതിനാൽ ബാഹ്യ റെസിസ്റ്ററുകൾ പ്രധാനമായും ആരംഭ കാലയളവിൽ ഉപയോഗിക്കുന്നു സാധാരണ പ്രവർത്തന സാഹചര്യങ്ങളിൽ മൂന്ന് ബ്രഷുകൾ ഷോർട്ട് സർക്യൂട്ട് ആണ് സാധാരണ റണ്ണിംഗ് അവസ്ഥയിൽ 3 ബ്രഷുകൾ ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ പ്രത്യേകിച്ചും രണ്ടാം അല്ലെങ്കിൽ മൂന്നാം വർഷ ഇൻഡക്ഷൻ മെഷീൻ പരീക്ഷണത്തിൽ പരീക്ഷണം നടത്തുമ്പോൾ ആ സമയത്ത് വൂണ്ട് റോട്ടർ മെഷീൻ തീർച്ചയായും കാണും അതിനാൽ ആ സമയത്ത് പരീക്ഷണശാലയിൽ പരീക്ഷണം നടത്തുമ്പോൾ ഇത് കാണാൻ കഴിയും പക്ഷേ ആദ്യ വർഷത്തിലെ അതേ പരീക്ഷണം നടത്തുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്നാൽ ഇവയാണ് പക്ഷേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണെങ്കിൽ തീർച്ചയായും ഇത് രണ്ടാം വർഷത്തിലോ മൂന്നാം വർഷ ഇലക്ട്രിക്കൽ മെഷീൻ പരീക്ഷണശാലയിലോ കാണുക